ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടുകളിൽ ഞങ്ങൾ അൽപ്പം സമയം ചിലവഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ചില തത്വങ്ങൾ ഞങ്ങൾ സാമാന്യവൽക്കരിക്കുന്നു അത് ഹൈ ഓർഡർ സർക്യൂട്ടുകൾക്കും ബാധകമാകും ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ സജ്ജമാക്കിയിട്ടുള്ളതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരൊറ്റ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റർ ഉപയോഗിച്ച് ഏത് സർക്യൂട്ടും വിശകലനം ചെയ്യാൻ കഴിയും സോഴ്സ് സീറോ ആണെന്ന് സങ്കൽപ്പിച്ചു സാധ്യമായ എല്ലാ സമാന്തര ശ്രേണി കോമ്പിനേഷനുകളും നിങ്ങൾ ചെയ്തുവെന്ന് നമുക്ക് അനുമാനിക്കാം അത് ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ആണ് അതെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ പക്കലുള്ളവ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ കഴിയും കപ്പാസിറ്ററിന്റെ അല്ലെങ്കിൽ ഇൻഡക്ടറിന്റെ ടെർമിനലുകളിലുടനീളം തെവേനിൻ പ്രതിരോധം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു ടൈം കോൺസ്റ്സ്ൻറെ ഉണ്ടാകും ഇത് വരെ നമ്മൾ ഇൻഡക്ടറുകളും കപ്പാസിറ്ററുകളും ഒരുമിച്ച് ചേർത്തിട്ടില്ല അതിനാൽ നമുക്ക് അത് ചെയ്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ ഇതുവരെ നമുക്ക് റെസിസ്റ്ററുകളും ഇൻഡക്ടറുകളും അല്ലെങ്കിൽ റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് ഉണ്ടാകും ഇപ്പോൾ നമുക്ക് ലൂപ്പിൽ കുറച്ച് കറന്റ് ഉണ്ട് ഞാൻ സർക്യൂട്ട് തിരഞ്ഞെടുത്ത രീതി എങ്ങിനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ മൂന്ന് ഘടകങ്ങളും സീരീസ് ആയിട്ടായിരിക്കും ക്രമീകരിച്ചിട്ടുണ്ടാവുക എന്നതാണ് അത് വ്യത്യസ്ത രീതികളിൽ ചെയ്യാമായിരിക്കും ഇങ്ങിനെ വരുമ്പോൾ ഒരു ലൂപ്പ് കറന്റുള്ള സിംഗിൾ ലൂപ്പ് നമുക്കുണ്ട് VR VL V C എന്നിങ്ങനെ നിരവധി വേരിയബിളുകൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും ഒരു തുടക്കമെന്ന നിലയിൽ VC യുടെ അടിസ്ഥാനത്തിൽ ആദ്യം ഡിഫറൻഷ്യൽ സമവാക്യം എഴുതുക ഡിഫറൻഷ്യൽ സമവാക്യവും ഞാൻ കണ്ടെത്തും എനിക്ക് ലഭിക്കുന്ന ഉത്തരത്തോടു നിങ്ങളുടെ ഉത്തരം താരതമ്യം ചെയ്യാം നിങ്ങൾക്ക് സെക്കന്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിക്കും അതായത് L C x ൻറെ സെക്കന്റ് ഡെറിവേറ്റീവ് RC x ൻറെ ടൈം ഡെറിവേറ്റീവ് V C V S നമ്മൾ ചെയ്യേണ്ടത് ഈ ലൂപ്പിന് ചുറ്റും KVL അപ്ലൈ ചെയ്യുക എന്നതാണ് അപ്പോൾ നമുക്ക് VR VL VC VS എന്ന് ലഭിക്കും എന്നിട്ട് V C യുടെ അടിസ്ഥാനത്തിൽ VR VL എന്നിവയെ എക്സ്പ്രസ്സ് ചെയ്യുക ഇത് VR C×dvcdt എന്നത് കറന്റ് ആണ് ×R എന്നത് റെസിസ്റ്ററിലുടനീളമുള്ള വോൾട്ടേജും അതിന്റെ ഈ L× ഡെറിവേറ്റീവ് ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജാണ് അതിനായി നമുക്ക് VR അല്ലെങ്കിൽ VL ന്റെ അടിസ്ഥാനത്തിൽ സർക്യൂട്ടിനുള്ള ഡിഫറൻഷ്യൽ സമവാക്യം എഴുതാം V R ന്റെ കാര്യത്തിൽ അത് എന്തായിരിക്കാം നമുക്ക് എന്ത് ലഭിക്കും വീണ്ടും VR ന്റെ അടിസ്ഥാനത്തിൽ ഡിഫറൻഷ്യൽ സമവാക്യം കണ്ടെത്തുക അത് എനിക്ക് ലഭിക്കുന്നതുമായി താരതമ്യം ചെയ്യുക ഇടത് വശത്ത് നിങ്ങൾക്ക് കൃത്യമായി അതേ പദങ്ങൾ ലഭിക്കും L C × VR ൻറെ സെക്കന്റ് ഡെറിവേറ്റീവ് RC x V R ൻറെ ഫസ്റ്റ് ഡെറിവേറ്റീവ് VR VS സോഴ്സ് വോൾടേജ് പതിവുപോലെ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ അതേ ഹോമോജിനിയസ് ഭാഗം ലഭിക്കും അതിനാൽ വലത് വശത്ത് മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ നമ്മൾ അത് VL ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതേ കാര്യം തന്നെ ലഭിക്കും അതായത് ഇടതു ഭാഗം ഒന്നുതന്നെയാണ് എന്നാൽ ഡിഫറൻഷ്യൽ സമവാക്യം വലതു വശത്തു വ്യത്യസ്തമായിരിക്കും അതിനാൽ സർക്യൂട്ടിലെ ഏതു എലെമെന്റിനും നാച്ചുറൽ റെസ്പോൺസിന് ഒരേ ഫോം ഉണ്ടായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഇത് I യുടെ രൂപത്തിലും എഴുതാം നമുക്കറിയാം I എന്നത് VRR ആണ് നമ്മൾ ഇത് R കൊണ്ട് ഹരിച്ചാൽ y യുടെ അടിസ്ഥാനത്തിൽ ഒരു ഡിഫറൻഷ്യൽ സമവാക്യം ലഭിക്കും ഇത് സർക്യൂട്ടിനെ നിയന്ത്രിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യമാണ് പതിവുപോലെ ആദ്യം നമ്മൾ നാച്ചുറൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഹോമോജിനിയസ് സമവാക്യത്തിനുള്ള പരിഹാരം കണ്ടെത്തും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് VS നെ 0 ആയി സജ്ജമാക്കുക LC VC യുടെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് RC യുടെ dvcdt ആദ്യ ഡെറിവേറ്റീവ് V C 0 ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റെസ്പോൺസിന്റെ രൂപം എന്താണ് എക്സ്പോണൻഷ്യൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യത്തിനുള്ള സ്റ്റാൻഡേർഡ് പരിഹാരം അതാണ് കാരണം ഒരു എക്സ്പോണൻഷ്യലിന്റെ ഡെറിവേറ്റീവ് ഒരു എക്സ്പോണൻഷ്യലാണ് അതിനാൽ എത്ര എക്സ്പോണൻഷ്യൽ ഒരുമിച്ചു ചേർത്താലും നമുക്ക് ലഭിക്കുന്ന ഉത്തരവും ഒരു എക്സ്പോണൻഷ്യൽ തന്നെയായിരിക്കയും അവയെല്ലാം സമയത്തിന്റെ പ്രവർത്തനമായി ഉണ്ടാകുന്ന ചില എക്സ്പോണൻഷ്യലുകൾ ആയിരിക്കും അതിനാൽ VC p x t എന്ന് ഞാൻ അനുമാനിക്കുകയാണെങ്കിൽ ഇതിനർത്ഥം ഇവിടെ അളവുകൾ ശരിയായി സൂക്ഷിക്കാൻ ഞാൻ V നോഡ് ഉപയോഗിക്കും അതിനാൽ എനിക്ക് എന്താണ് ഉള്ളത് ആദ്യ പദം എന്താണ് ഞാൻ ഈ VC ഡിഫറൻഷ്യൽ സമവാക്യത്തിന് പകരം വയ്ക്കുകയാണെങ്കിൽ LC × p 2 RC × p 1 × V0 എക്സ്പോണൻഷ്യൽ pt 0 എന്ന് ലഭിക്കും ഇത് സംഭവിക്കാൻ പോകുന്ന ഒരേയൊരു മാർഗ്ഗം ആ ക്വാഡ്രാറ്റിക് സമവാക്യം 0 ആകുമ്പോൾ മാത്രമാണ് ഇതിനെയാണ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ക്യാരക്ടെറിസ്ടിക് സമവാക്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിനായി ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇത് ചെയ്തില്ല ഒരു ഏകീകൃത സമവാക്യം ലഭിക്കുന്നതിന് വേരിയബിളുകൾ കൈകാര്യം ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിച്ചു ഇവിടെയും അതേ നടപടിക്രമം തന്നെ പ്രവർത്തിക്കും കാരണം ആ കേസിലെ ഡിഫറൻഷ്യൽ സമവാക്യം എന്തായിരുന്നു R C x V C യുടെ ആദ്യ ഡെറിവേറ്റീവ് V C 0 ഇതൊരു ഹോമോജിനിയസ് സമവാക്യമായിരുന്നു VC V0 എക്സ്പോണൻഷ്യൽ pt ആണെന്ന് കരുതുകയാണെങ്കിൽ എനിക്ക് RC × p 1 V 0 എക്സ്പോണൻഷ്യൽ pt 0 എന്ന് ലഭിക്കും ഈ മുഴുവൻ കാര്യത്തിനും തുല്യമായ p ന്റെ മൂല്യങ്ങൾ വ്യത്യസ്തമായ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും വ്യക്തമായും p 1 RC ആണ് p യുടെ അളവുകൾ എന്തൊക്കെയാണ് എക്സ്പോണൻഷ്യൽ pt എന്നതിന്റെ ആർഗ്യുമെന്റ് ആണ് അതിനാൽ p × t എന്നത് അളവില്ലാത്തതാണ് p എന്നത് ആവൃത്തിയാണ് അതിനാൽ നിങ്ങൾ ക്യാരക്ടെറിസ്ടിക് സമവാക്യം പരിഹരിക്കുകയാണെങ്കിൽ എക്സ്പോണൻഷ്യലിന്റെ സാധ്യമായ ആവൃത്തികൾ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് സമവാക്യം ഉണ്ട് അതിനു നമുക്ക് രണ്ടു സൊല്യൂഷൻസ് ലഭിക്കും എന്താണ് സൊല്യൂഷൻസ് അതിനാൽ ഈ ഭാഗം 0 ന് തുല്യമായിരിക്കണം RC അല്ലെങ്കിൽ √2 4×LC 2xLC എന്ന ക്വാഡ്രാറ്റിക് സമവാക്യത്തിനുള്ള സ്റ്റാൻഡേർഡ് പരിഹാരം നമുക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഇത് ഏത് രൂപത്തിലും എഴുതാം അതിനാൽ p ന്റെ രണ്ട് മൂല്യങ്ങളുണ്ട് ഇത് തൃപ്തിപ്പെടുത്തുന്നു നാച്ചുറൽ റെസ്പോൺസിന്റെ അർത്ഥം എന്താണ് സർക്യൂട്ടിനായി രണ്ട് നാച്ചുറൽ മോഡുകൾ ഉണ്ട് അതിനാൽ p 1t ഉം p 2t ഉം രണ്ടും സാധ്യമായ എക്സ്പോണൻഷ്യൽ നാച്ചുറൽ പ്രതികരണവും ആണ് ഇത് ഒരു ചില ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും അതിനാൽ പൊതുവേ നമുക്ക് ഒരു ഏകീകൃത p 1 t a 2 exponential p 2 t എന്ന് പറയാം ഈ ഹോമോജിനിയസ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾക്കുള്ള പരിഹാരങ്ങളും 1 2 പ്രാരംഭ അവസ്ഥ എങ്ങനെ കണ്ടെത്താം നിങ്ങൾ കൂടുതൽ പരിശോധിക്കേണ്ട ചില നിബന്ധനകളുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കോർഡിനേറ്റ് സമവാക്യങ്ങളുണ്ട് അതിനാൽ റൂട്സിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതിനാൽ p 1 ഉം p 2 ഉം യഥാർത്ഥമാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ രണ്ട് വ്യതിരിക്ത എക്സ്പോണൻഷ്യലുകൾ ലഭിക്കുന്നു അതിനാൽ ആ കേസിലെ പരിഹാരവും പ്രാരംഭ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ 1 ഉം 2 ഉം കണ്ടെത്തുന്നു p 1 p 2 എന്നിവ സമാനവും യഥാർത്ഥവും ആകാം ഒടുവിൽ നമ്മൾ കണ്ടെത്തും p 1 ഉം 2 ഉം കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് ഇപ്പോൾ പരസ്പരം കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്ന് നിങ്ങൾക്ക് p 1 2 എന്നിവയും ഉണ്ടായിരിക്കാം അതിനാൽ p 1 2 ൽ യഥാർത്ഥവും വ്യത്യസ്തവുമാണ് ഇത് സ്വാഭാവിക പ്രതികരണമാണ് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് 2 4 LC യിൽ കൂടുതലോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ R2 4 lC ആയിരിക്കും പൊതുവായിട്ടു പറഞ്ഞാൽ ഇതിനു രണ്ടു വിശദീകരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥി സർ സ്വാഭാവിക പ്രതികരണത്തിൽ ഇപ്പോൾ നിങ്ങൾ മറ്റ് കേസുകളിലേക്കും p1 p2 എന്നിവ യഥാർത്ഥവും സമാനവുമാകുമ്പോൾ ഞങ്ങൾ പരിഗണിക്കും കാരണം ഇത് പരിഹാരങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കും